സുപ്രഭാതം ക്വാളിറ്റി കൺട്രോളിനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചാർട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ ആട്രിബ്യൂട്ട് ചാർട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യും ആട്രിബ്യൂട്ടുകൾക്കായുള്ള കൺട്രോൾ ചാർട്ടുകൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആദ്യ ചാർട്ട് P ചാർട്ട് ആണ് ഒരു സാമ്പിളിൽ ഉള്ള ഡിഫെക്ടിവുകളുടെ അനുപാതം അളക്കാൻ P ചാർട്ടുകൾ ഉപയോഗിക്കുന്നു പ്രൊപോർഷൻ ഡിഫെക്ടിവ് എന്നാൽ സെൻട്രൽ ലൈനിന്റെ കമ്പ്യൂട്ടഷനും അതുപോലെ അപ്പർ ഒപ്പം ലോവർ കൺട്രോൾ ലിമിറ്റും മറ്റ് കൺട്രോൾ ചാർട്ടിന്റെ കമ്പ്യൂട്ടേഷന് സമാനമാണ് എന്നാൽ സെന്റർലൈൻ കണക്കാക്കുന്നത് പോപുലേഷനിലെ ശരാശരി പ്രൊപോർഷൻ ഡിഫെക്ടിവ് എന്നതായിട്ടാണ് അതിനെ p എന്നാണ് സൂചിപ്പിക്കുന്നത് അത് റാൻഡമായി എടുത്ത സാമ്പിളുകളുടെ എണ്ണത്തിന്റെ നിരീക്ഷണങ്ങൾ വഴി ആണ് ലഭിക്കുന്നത് എന്നിട്ട് മൂല്യങ്ങളുടെ ശരാശരി P കണക്കുകൂട്ടുന്നു L p zσ എന്താണ് സിഗ്മ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് p എന്നത് സാമ്പിൾ പ്രൊപോർഷൻ ഡിഫെക്ടിവ് ആണ് അതിനാൽ ഇത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡീവിയേറ്റ് ആണ് കൂടാതെ p എന്നത് ആവറേജ് പ്രൊപോർഷൻ ഡിഫെക്ടിവിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് p p n ഇവിടെ n സാമ്പിൾ സൈസ് p സാമ്പിൾ പ്രൊപോർഷൻ ഡിഫെക്ടിവ് അതിനാൽ ഇത് ഒരു പ്ലോട്ട് ചെയ്ത P ചാർട്ട് ആണ് അത് ഇവിടെയുള്ള ഒരു റഫറൻസിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് ഇത് ഡിഫെക്ടിവ് യൂണിറ്റുകളുടെ പ്രൊപോർഷനെ കാണിക്കുന്നു അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും അവിടെ ഉണ്ട് ഈ ന്യൂമെറിക്കൽ നോക്കാൻ ഞാൻ ശ്രമിക്കുന്നു നട്ടും ബോൾട്ടും ഉൽപാദിപ്പിക്കുന്ന ഒരു വ്യവസായത്തിൽ നടത്തിയ ക്വാളിറ്റി പരിശോധന റാൻഡം സാമ്പിൾ എടുക്കുകയും ഒപ്പം നട്ടിന്റെയും ബോൾട്ടിന്റെയും ചില കേടുള്ള പീസുകൾ ലഭിക്കുകയും ചെയ്തു ചുവടെ അത് പട്ടികപ്പെടുത്തുകയും ചെയ്തു ആ ഡാറ്റ ഉപയോഗിച്ച് അതിന്റെ P ചാർട്ട് വരയ്ക്കുക അതിനാൽ നമുക്ക് 1 മുതൽ 30 വരെയുള്ള പീരീഡ് ഉണ്ട് അതിനാൽ ഈ ഉപഗ്രൂപ്പ് മൂല്യം അവിടെയുണ്ട് കൂടാതെ ഡിഫക്റ്റീവുകളുടെ എണ്ണവും ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ ഡാറ്റ എന്റെ എക്സൽ ഷീറ്റിലേക്ക് മാറ്റുന്നു ഞാൻ ഇതിനകം തന്നെ അത് മാറ്റുകയും ചെയ്തു ഒപ്പം നമ്മൾ എങ്ങനെ P ചാർട്ട് നിർമ്മിക്കുമെന്ന് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നമുക്ക് ഡിഫെക്ടിവ് പീസുകളുടെ എണ്ണവും അതോടൊപ്പം പീരീഡും ഉണ്ട് ഇത് യഥാർത്ഥ പീരീഡ് ആണ് ഇത് നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ളതാണ് അതിനാൽ ഇത് നമ്പർ ഡിഫെക്റ്റീവ് ആണ് എനിക്ക് പ്രൊപോർഷൻ കാണേണ്ടതുണ്ട് ഇത് നേരിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ np ചാർട്ടിലേക്ക് വരും നിങ്ങൾക്കുള്ള പ്രൊപോർഷനുകളുടെ എണ്ണം എന്നത് ഡിഫെക്ടിവുകളുടെ എണ്ണത്തെ പരിശോധിച്ച മുഴുവൻ പീസുകളുടെ എണ്ണവുമായി ഹരിക്കുന്നതിന് തുല്യമാണ് ഇത് 0 95 ആണ് ശരി ഞാൻ ഡിഫെക്ടിവുകളുടെ എണ്ണം ആവർത്തിക്കുകയാണെങ്കിൽ ഇത് ഡിഫെക്ടിവുകളുടെ എണ്ണം 19 ആണ് അതിനെ സബ്ഗ്രൂപ്പ് സൈസ് അതായത് 200 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് എന്റർ അതിനാൽ എനിക്ക് എന്റെ പ്രൊപോർഷൻ ഡിഫെക്ടിവും ഫോർമാറ്റ് സെല്ലുകളും ലഭിക്കാൻ വേണ്ടി ഞാൻ ഇത് ഡ്രാഗ് ചെയ്യുന്നു ദശാംശത്തിന്റെ രണ്ട് സ്ഥാനങ്ങളിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവരുന്നു ശരി ഇത് ആണ് എന്റെ പ്രൊപോർഷൻ ഡിഫെക്ടിവ് അതിനാൽ ഞാൻ അതിനെ പെർസെന്റ് ഡിഫെക്ടിവ് എന്ന് വിളിക്കും ശരി ഇപ്പോൾ ഇത് ആണ് എന്റെ പെർസെന്റ് ഡിഫെക്ടിവ് ഇപ്പോൾ എനിക്ക് ഫോർമുല ഉപയോഗിച്ച് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കണക്കാക്കാം U L pzσ p p n അതിനാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന z ന്റെ മൂല്യം ഇവിടെ 3 ആണ് ഇത് പെർസെന്റ് ഡിഫെക്ടിവ് ആണ് അപ്പോൾ p എന്താണ് ഈ മൂല്യങ്ങളുടെ ശരാശരി എന്റർ അത് 0 1 എന്നതിന് തുല്യമാണ് അത് ഞാൻ ഇവിടെ ഇടുന്നു ഇത് p ആണ് അത് ഞാൻ ഒരു ബോക്സിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഈ p ന് ചുവപ്പ് നിറം നൽകും അതിനാൽ ഇത് p ന് തുല്യമാണ് ഈ മൂല്യം ശരി അതിനുശേഷം ഞാൻ ഇവിടെ ഇടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഒരു സെക്കൻഡ് എന്റെ ലോവർ കൺട്രോൾ ലിമിറ്റ് ഇവിടെ ആദ്യം ഇടാനുള്ള സമയം ആണ് അതിനുശേഷം ഞാൻ എന്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് ഇടുന്നു L L p zσ p p n ഞാൻ വീണ്ടും p ബാർ ഈ മൂല്യം ഇടുന്നു p നെ 1 മൈനസ് p കൊണ്ട് ഗുണിക്കുന്നു D 32 നെ n കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ ഇവിടെ n എന്താണ് n എന്നത് എന്റെ സബ്ഗ്രൂപ്പ് സൈസ് ആണ് ശരി n യഥാർത്ഥത്തിൽ ഈ മൂല്യം B2 സബ്ഗ്രൂപ്പ് സൈസ് ആണ് അതിനാൽ ആദ്യം ഞാൻ ബ്രാക്കറ്റ് അടയ്ക്കട്ടെ ഇതെല്ലാം പൂർണ്ണമായി എനിക്ക് ഇവിടെയും സ്ക്വയർ റൂട്ട് എടുക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇവിടെ ബ്രേസസുകൾ തുടങ്ങുന്നു അതിനുശേഷം സ്ക്വയർ റൂട്ട് എടുക്കുക അതിനായി ഞാൻ ബ്രേസസുകൾ അടയ്ക്കേണ്ടതുണ്ട് എന്നിട്ട് ഇത് അടയ്ക്കുക നമ്മൾ തെറ്റ് കണ്ടുപിടിച്ചു അത് 0 36 ആണ് അതിനാൽ ഒഴിവാക്കുക അതിനാൽ ഞാൻ ഇത് വീണ്ടും പരിശോധിക്കുന്നു അത് L C L p 3p n അതിനാൽ ഈ സമവാക്യം പൂർണ്ണമായി p ന്റെ മൂല്യം ലോക്കുചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഡോളർ ചിഹ്നം ഇടുന്നു ശരി ഈ B2 സബ്ഗ്രൂപ്പ് സൈസ് വ്യത്യാസപ്പെടും ഇത് ഇപ്പോൾ ഫിക്സ് ചെയ്തു മാത്രമല്ല ഇത് ഞാൻ ഫോർമാറ്റ് ചെയ്യുവാനും എന്നിട്ട് അതിനെ രണ്ടാം സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഞാൻ അതിനെ ദശാംശത്തിന്റെ മൂന്നാം സ്ഥാനത്ത് ഇടുവാനും ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാം ഞാൻ ഈ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊപോർഷൻ ഡിഫെക്ടിവിനെ കുറിച്ച് ആണ് കൂടാതെ പ്രൊപോർഷന് മറ്റൊരു 0 ആവശ്യമായി വരാം ഇതാണ് മൂല്യം ഞാൻ ഇത് ഡ്രാഗ് ചെയ്യുന്നു ഈ മൂല്യങ്ങൾക്കായി എനിക്ക് ലോവർ കൺട്രോൾ ലിമിറ്റ് ലഭിക്കും എനിക്ക് എന്റെ അപ്പർ കൺട്രോൾ ലിമിറ്റും കണ്ടെത്താൻ കഴിയും ഒരു വ്യത്യാസം മാത്രം ഞാൻ ഈ ഫോർമുലയെ വീണ്ടും ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു ശരി അതിനാൽ ഈ B P ഉപഗ്രൂപ്പായി തുടരുന്നുവെന്ന് ഞാൻ ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ മൈനസിന്റെ സ്ഥാനത്ത് ഞാൻ പ്ലസ് എന്ന് ഇടും എന്റർ അതിനാൽ ഇതാണ് മൂല്യം ശരി ലോവർ കൺട്രോൾ ലിമിറ്റ് അപ്പർ കൺട്രോൾ ലിമിറ്റ് പിന്നെ സെൻട്രൽ ലൈൻ ഇത് മറ്റൊന്നുമല്ല മറിച്ച് എന്റെ p ന്റെ മൂല്യം ആണ് ഇത് ഡോളർ D 32 ന് തുല്യമാണ് ശരി ഈ മൂല്യം D32 ഡോളർ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നു എന്റർ ഇത് പ്രൊപോർഷൻ ഡിഫെക്ടിവ് ആണ് അതിനാൽ ഞാൻ ഇത് ലൈൻ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യാൻ പോകുന്നു ശരി ലൈൻ ഇൻസേർട്ട് ചെയ്യുക അതിനാൽ എനിക്ക് ഇത് ലഭിച്ചു ഇതാണ് എന്റെ പ്രൊപോർഷൻ ഡിഫെക്ടിവ് ചാർട്ട് അല്ലെങ്കിൽ P ചാർട്ട് ശരി ഞാൻ ഇവിടെ ചാർട്ട് ടൈറ്റിൽ ഇടും ഇത് P ചാർട്ട് ആണ് ശരി ലോവർ കൺട്രോൾ ലിമിറ്റ് അപ്പർ കൺട്രോൾ ലിമിറ്റ് ഒപ്പം സെന്റർലൈൻ ശരി ഇപ്പോൾ എനിക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും സെൻട്രൽ ലൈനും ലഭിച്ചു എനിക്ക് എന്റെ പ്രോസസ്സ് ഇവിടെ ഇടേണ്ടതില്ല ഇവിടെ പ്രോസസ്സ് പെർസെന്റ് ഡിഫെക്ടിവ് ആണ് അതിനാൽ ഞാൻ ഇത് വീണ്ടും പ്ലോട്ട് ചെയ്യും ഞാൻ എന്റെ പെർസെന്റ് ഡിഫെക്ടിവും കൺട്രോൾ ലിമിറ്റും സെൻട്രൽ ലൈനും തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം ലൈൻ ഡയഗ്രം ഇൻസേർട്ട് ചെയ്യുക ഇത് എന്റെ P ചാർട്ട് ആണ് ശരി അതിനാൽ മുഴുവൻ പ്രക്രിയയും നിയന്ത്രണത്തിലാണ് ശരി പ്രൊപോർഷൻ ഡിഫെക്ടിവുകൾ അവിടെയുണ്ട് എന്നാൽ അവ എല്ലാം ഈ 3σ ലിമിറ്റ്സിനുള്ളിൽ ആണ് ഞാൻ എന്റെ സിഗ്മ ലിമിറ്റ്സ് കുറച്ചാൽ ഈ മൂല്യം അത് ഔട്ട് ഓഫ് കൺട്രോളിൽ ആയേക്കാം ഇത് ഏറ്റവും ഉയർന്ന മൂല്യമാണ് അത് ഔട്ട് ഓഫ് കൺട്രോളിൽ ആയേക്കാം കൂടാതെ ഡാറ്റ ലേബലുകൾ ഞാൻ ലേബൽ ചെയ്യട്ടെ ശരി 0 16 പരമാവധി മൂല്യവും കൂടാതെ കുറഞ്ഞ മൂല്യം 0 05 ആണ് ശരി അതിനാൽ ഇതാണ് P ചാർട്ട് അതിനാൽ അടുത്തത് P ചാർട്ടുകൾക്ക് സമാനമായി നമുക്ക് np ചാർട്ടുകൾ ഉണ്ട് അതിനുമുമ്പ് ഞാൻ C ചാർട്ടുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു C ചാർട്ടുകൾ എന്നാൽ എന്താണ് C ചാർട്ടുകൾ ഡിഫെക്ടസ് പെർ യൂണിറ്റിനെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു നമുക്ക് ഡിഫെക്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു യൂണിറ്റിലുള്ള ഡിഫെക്ടുകൾ ഉള്ളപ്പോൾ നമുക്ക് C ചാർട്ട് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡിഫെക്ടുകളുടെ എണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാർ നിർമ്മിക്കുമ്പോൾ ഒരു നിർദ്ദിഷ്ട സെക്ഷനിലെ ഡിഫക്റ്റീവുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്മൾ പായ്ക്ക് ചെയ്ത കുപ്പികളുടെ ഡിഫെക്ടിവ് പീസുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലെ തിരിച്ചയച്ച ഭക്ഷണത്തിന്റെ എണ്ണം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഭാര പരിധി കവിയുന്ന ട്രക്കുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിഫെക്ടുകളുടെ എണ്ണം ഉള്ളപ്പോൾ C ചാർട്ടുകൾ ഉപയോഗിക്കുന്നു അതിനാൽ C ചാർട്ടിൽ ശരാശരി ഡിഫെക്ടുകളുടെ എണ്ണത്തെ C എന്ന് സൂചിപ്പിക്കുന്നു ശരി L C ശരാശരി ഡിഫെക്ടുകളുടെ എണ്ണം U L CzC L C L C zC Let z 3 അതിനാൽ സി ചാർട്ടുകളിൽ ഒന്ന് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ ഇത് കാണിക്കുന്നു അതായത് മൂല്യങ്ങളിൽ ഒന്ന് നിയന്ത്രണത്തിലല്ലെന്ന് ഇത് ഡിഫെക്ടുകളുടെ എണ്ണം മാത്രമാണ് C എന്നത് ഒരു കേന്ദ്ര രേഖയായി പ്രവർത്തിക്കുന്ന മൂല്യമാണ് ഇത് നമ്മുടെ കേന്ദ്ര രേഖയായി പ്രവർത്തിക്കുന്നു സെൻട്രൽ ലൈൻ ഈ മൂല്യത്തിന് തുല്യമാണ് കൂടാതെ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും അവിടെ ഉണ്ട് അടുത്തതായി എന്റെ C ചാർട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ന്യൂമെറിക്കൽ പ്രോബ്ലം എടുക്കുന്നു ഒപ്പം ചോദ്യത്തിൽ നമുക്ക് ഒരു ഓട്ടോമൊബൈൽ വ്യവസായമുണ്ട് വ്യത്യസ്ത സമയ പരിധികളിൽ ഒരു ഇൻസ്പെക്ടർ വിവിധ ക്വാളിറ്റി പരിശോധനകൾ നടത്തി കൂടാതെ വ്യത്യസ്ത എണ്ണം ഡിഫെക്ടുകൾ കണ്ടെത്തി അത് ഇവിടെ താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഈ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഒരു C ചാർട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് പ്രക്രിയകൾ നിയന്ത്രണത്തിലാണോ അല്ലയോ എന്ന് കാണുന്നു അതിനാൽ ഇവയാണ് ഡിഫെക്ടുകളുടെ എണ്ണം ഒരു വാഹനത്തിന് 27 ഡിഫെക്ടുകൾ ഈ ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ അത് മോട്ടോർ ബൈക്ക് ആകാം അത് ഒരു കാർ ആകാം അല്ലെങ്കിൽ ട്രക്ക് ബസ് എന്തും ആകാം അതിനാൽ കണ്ടെത്തിയ അന്തിമ പരിശോധനയിലെ ഡിഫെക്ടുകളുടെ എണ്ണം 27 ആണ് ശരി അതിനാൽ ഇത് ഇവിടെ 17 ആണ് 21 അങ്ങനെ ഇത്യാദി അതിനാൽ ഈ C ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഡാറ്റ എക്സൽ ഷീറ്റിനകത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് ഡിഫെക്ടുകളുടെ എണ്ണം ഞാൻ ആദ്യം കണക്കാക്കേണ്ടത് C ആണ് C എന്നത് ശരാശരി ഡിഫെക്ടുകളുടെ എണ്ണം ആണ് ശരി അതിനാൽ C എനിക്ക് ഇവിടെ ഇടാം Cഎന്നത് ഈ സംഖ്യകളുടെ ആവറേജിന് തുല്യമാണ് ശരി എന്റർ ഇത് 18 ആണ് അതിനാൽ ഞാൻ അതിനെ 2 ദശാംശസ്ഥാനത്തേക്ക് മാറ്റുന്നു 17 അതിനുള്ള മറ്റൊരു മാർഗ്ഗം എന്നത് ശരാശരിയുടെ സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെ ഇപ്രകാരം ഇടുന്നു ഇത് ഈ സംഖ്യകളുടെ ആകെത്തുകയെ ഈ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ഇത് ഒരേ കാര്യം തന്നെ ആണ് എന്നാൽ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് കാരണം U ചാർട്ടിൽ ഞാൻ നിങ്ങളോട് പറയും ചിലപ്പോൾ നമ്പർ വ്യത്യസ്തമായിരിക്കും നമ്മൾ ഒരു ഓട്ടോമൊബൈൽ മാത്രമാണ് എടുക്കുന്നത് ഇതിനെ വിഭജിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല പഠിക്കുകയോ ചെയ്യുന്നുവെങ്കിലോ ഇവിടെ ഈ നമ്പറുകളുടെ എണ്ണം വീണ്ടും 30 എന്ന് തന്നെയായിരിക്കും അതിനാൽ ഇത് Cആണ് ശരി അതിനുശേഷം എനിക്ക് എന്റെ സെൻട്രൽ ലൈൻ ഇടാം അത് Cന് തുല്യമാണ് അതിനുശേഷം ലോവർ കൺട്രോൾ ലിമിറ്റ് തുടർന്ന് ഞാൻ എന്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് ഇടും ശരി സെൻട്രൽ ലൈൻ Cന് തുല്യമാണ് എന്റർ ഞാൻ അതിനെ ലോക്ക് ചെയ്യുന്നു ഡോളർ ഉപയോഗിച്ച് ശരി L C 3C അതെ എന്ന് എന്റർ ചെയ്യുക ഇത് 5 1 ആണ് അതിനാൽ ഞാൻ ഇവിടെ ഡോളർ ചിഹ്നം ഇടുന്നു എന്റർ എന്നിട്ട് ദശാംശത്തിന്റെ രണ്ട് സ്ഥാനങ്ങൾ വരെ നൽകാം ശരി ഇതാണ് എന്റെ ലോവർ കൺട്രോൾ ലിമിറ്റ് ശരി അതുപോലെ അപ്പർ കൺട്രോൾ ലിമിറ്റ് ഇതിന് സമാനമായിരിക്കും L C3C എന്റർ ഇതാണ് എന്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എനിക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ കഴിയും ഒരു ലൈൻ ഡയഗ്രം ഇൻസേർട്ട് ചെയ്യുക ഇതാണ് എന്റെ ഡിഫെക്ടുകളുടെ എണ്ണം നീല വര കൺട്രോൾ ലിമിറ്റ് ലോവർ കൺട്രോൾ ലിമിറ്റ് അപ്പർ കൺട്രോൾ ലിമിറ്റ് ശരി നിങ്ങൾ ഈ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ നിറം ചാരനിറത്തിലേക്ക് മാത്രം മാറ്റാൻ കഴിയും ശരി ഇത് ചുവപ്പ് പോലെ നിറമുള്ളതുമാകാം ശരി ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും അവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഡാറ്റ ലേബലുകൾ ഇടുന്നു ഇത് എന്റെ C ചാർട്ട് ഇവിടെ കാണിക്കുന്നു ശരി അതിനാൽ ഡിഫെക്ടുകളുടെ എണ്ണം സ്ഥിരമായിരിക്കുമ്പോൾ C ചാർട്ട് ഉപയോഗിക്കുന്നു C ചാർട്ടിന് സമാനമായി നമുക്ക് U ചാർട്ട് ഉണ്ട് ഒരു C ചാർട്ട് ഉപയോഗിച്ച് സാമ്പിൾ സൈസ് ഒരു യൂണിറ്റാണ് അതായത് ഒരു യൂണിറ്റിലുള്ള ഒരു ഓട്ടോമൊബൈലിലെ ഡിഫെക്ടുകളുട എണ്ണം നമുക്ക് ഉണ്ട് എന്നാൽ യൂണിറ്റുകളുടെ എണ്ണം വ്യത്യസ്തമാകുമ്പോൾ സാമ്പിൾ സൈസ് ഒരു യൂണിറ്റിനേക്കാൾ വലുതായിരിക്കുമ്പോൾ ഒഴികെ U ചാർട്ട് ഒരു C ചാർട്ട് പോലെയാണ് ഒരു C ചാർട്ട് ഉപയോഗിച്ച് സാമ്പിൾ സൈസ് ഒരു യൂണിറ്റാണ് എന്നാൽ യൂണിറ്റുകളുടെ എണ്ണം ഒന്നിൽ കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ഒന്നിൽ കൂടുതൽ ആകുമ്പോൾ U ചാർട്ട് ഉപയോഗിക്കുന്നു പക്ഷേ ഇത് C ചാർട്ടിന് സമാനമാണ് ഒരു കാര്യം ഉള്ളത് അവിടെ യൂണിറ്റുകളുടെ എണ്ണം ഉണ്ട് നമ്മൾ അതിന്റെ പ്രൊപോർഷൻ എടുക്കുന്നു അതിനാൽ ഇവിടെ C ചാർട്ട് ഒരു യൂണിറ്റിലെ ഡിഫെക്ടുകളുടെ എണ്ണത്തെ നിരീക്ഷിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ U ചാർട്ട് നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ട്രാക്കുചെയ്യുന്നത് പെർ യൂണിറ്റിൽ ഉള്ള ഡിഫെക്ടുകളുടെ എണ്ണമാണ് ശരി അതിനാൽ നമ്മൾ ഡിഫെക്ടുകളുടെ എണ്ണത്തെ n കൊണ്ട് ഹരിക്കുന്നു L u U L u3un L L u 3un n സബ്ഗ്രൂപ്പ് സൈസ് അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ഇത് U ചാർട്ടുകളിൽ ഒരെണ്ണം ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇവിടെ ന്യൂമെറിക്കൽ പ്രോബ്ലമുള്ളതിനാൽ ഇത് പ്ലോട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു അതിനാൽ C ചാർട്ടിന് സമാനമായി U ചാർട്ട് പെർ യൂണിറ്റിലുള്ള മൊത്തം ഡിഫെക്ടുകളുടെ എണ്ണത്തെ കണക്കാക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ന്യൂമെറിക്കൽ ഉപയോഗിച്ച് ഇവിടെ എന്താണ് പ്രശ്നം ഒരു കാർ വ്യവസായശാലയിൽ ഒരു പ്രത്യേക തരം കാർ മോഡലിന് ആക്സിൽ ഉത്പാദിപ്പിക്കുന്നു അതിന്റെ സ്വന്തം വ്യവസായശാലയിൽ റാൻഡം ആയി എടുത്ത സാമ്പിൾ സൈസുകളിൽ നിന്നും വ്യത്യസ്ത സമയ കാലയളവുകളിൽ ഉണ്ടാക്കിയ കാർ ആക്സിലിനെ അതിന്റെ ക്വാളിറ്റി ഇൻസ്പെക്ടർ പരിശോധിക്കുന്നു കൂടാതെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിലെ ഡിഫെക്ടിവ് പീസുകളെ ശ്രദ്ധിക്കുക അതിനാൽ ഇത് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഇത് തന്നിരിക്കുന്ന ഒരു ഡാറ്റയാണ് ഒരു U ചാർട്ട് ഉണ്ടാക്കുക ആക്സിലുകളുടെ എണ്ണം ഉൽപാദിപ്പിക്കപ്പെടുന്നുവെന്ന് ആണ് അവർ പറയുന്നത് റാൻഡമായി ആക്സിലുകളുടെ സൈസ് തിരഞ്ഞെടുക്കുക മുമ്പത്തെ C ചാർട്ടിൽ നമുക്ക് ഒരു മുഴുവൻ ഓട്ടോമൊബൈൽ ഉണ്ടായിരുന്നു മാത്രമല്ല അത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ ഡിഫെക്ടുകളെയും നോക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇവിടെ അദ്ദേഹം ചെയ്തതെന്താണ് അദ്ദേഹം ആദ്യം 37 ആക്സിലുകൾ എടുക്കുന്നു തുടർന്ന് 42 ആക്സിലുകൾ എടുക്കുന്നു എന്നിട്ട് 37 എണ്ണത്തിൽ 19 എണ്ണം ഡിഫെക്ട് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു 42 എണ്ണത്തിൽ 27 എണ്ണം ഡിഫെക്ട് ഉണ്ടെന്ന് അവർ കണ്ടെത്തി അതിനാൽ പെർ യൂണിറ്റിലുള്ള ഡിഫെക്ടുകൾ നമ്മൾ കണക്കാക്കുന്നു 0 51 എന്നത് 19 ബൈ 37 ആണ് 27 ബൈ 42 എന്നത് 0 64 ആയി കുറയുന്നു അതിനാൽ U ചാർട്ട് പ്ലോട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു നമ്മൾ ഡിഫെക്ടുകളുടെ എണ്ണം കണക്കാക്കി നിങ്ങൾക്ക് ഫോർമുല കാണാൻ കഴിയും അത് C 2 ബൈ B 2 ആണ് C 2 എന്നാൽ 19 ബൈ 37 മുതൽ ഡിഫെക്ടസ് പെർ യൂണിറ്റ് വരെ അതിനാൽ ലോവറും അപ്പർ കൺട്രോൾ ലിമിറ്റും കണക്കാക്കാൻ വേണ്ടി എനിക്ക് u കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ u എന്നത് മൊത്തം ഡിഫെക്ടുകളുടെ എണ്ണത്തെ പരിശോധിച്ച മൊത്തം പീസുകളുടെ എണ്ണവുമായി ഹരിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഇത് മൊത്തം ഡിഫെക്ടുകളുടെ എണ്ണത്തിന്റെ ആകെത്തുകയ്ക്ക് തുല്യമാണ് ഇതിന് സമാനമായി പരിശോധിച്ച മൊത്തം പീസുകളുടെ എണ്ണം നമുക്കുണ്ട് ഒപ്പം നമുക്ക് u ഉണ്ട് ഇത് മൊത്തം ഡിഫെക്ടുകളുടെ എണ്ണത്തെ പരിശോധിച്ച മൊത്തം പീസുകളുടെ എണ്ണവുമായി ഹരിക്കുന്നതിന് തുല്യമാണ് എന്റർ ഇത് 0 6 ആണ് മൂല്യം ഇരട്ടിയാക്കുക അതിനായി ദശാംശത്തിന്റെ രണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ശരി അതിനാൽ നമുക്ക് ഇവിടെ u എന്ന മൂല്യമുണ്ട് നമുക്ക് സെൻട്രൽ ലൈൻ ലോവർ കൺട്രോൾ ലിമിറ്റ് അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്നിവയുണ്ട് സെന്റർ ലൈൻ u ന് തുല്യമാണ് എന്റർ മൂല്യം ലോക്കുചെയ്യുക ശരി C L u L L u 3un ഇവിടെ n എന്നത് എന്റെ പരിശോധിച്ച പീസുകളുടെ എണ്ണം ആണ് അതായത് ഇവിടെ അത് 37 ആണ് അതായത് B 2 ബ്രാക്കറ്റ് അടയ്ക്കുക എന്റർ അതിനാൽ 0 219 അതിനാൽ ഞാൻ അതിനെ ദശാംശത്തിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരട്ടെ ശരി ലോവർ കൺട്രോൾ ലിമിറ്റ് അവിടെ ഉണ്ട് അതിനാൽ ഞാൻ u ലോക്ക് ചെയ്യുന്നു എന്റർ എന്നിട്ട് ട്രാക്കുചെയ്യുക അതിനാൽ അപ്പർ കൺട്രോൾ ലിമിറ്റും സമാനമായിരിക്കും L u3un അത്രയേയുള്ളൂ അതിനാൽ ഞാൻ ഈ ഡിഫെക്ടസ് പെർ യൂണിറ്റ് പ്ലോട്ട് ചെയ്യും എനിക്ക് നേരിട്ട് എന്റെ U ചാർട്ടുകൾ ലഭിക്കും അതിനാൽ ഇത് ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും സെൻട്രൽ ലൈനും ആണ് കൂടാതെ എനിക്ക് ഈ U ചാർട്ട് ഉണ്ട് അതിനാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള ഒരു ഒബ്സെർവേഷൻ ഔട്ട് ഓഫ് കൺട്രോളിൽ ആണെന്ന് ആദ്യം ഞാൻ ഇവിടെ ഡാറ്റ ലേബലുകൾ ചേർക്കുന്നു ഈ മൂല്യം 1 06 ആണ് എന്നിട്ട് ഞാൻ ഈ മൂല്യത്തിലേക്ക് പോയാൽ ഈ സീരീസ് ഡിഫെക്ടസ് പെർ യൂണിറ്റ് ആണ് കൂടാതെ റീഡിങ് നമ്പറും അത് പറയുന്നു ശരി 0 28 ഡാറ്റ ലേബൽ ശരി പോയിന്റ് നമ്പർ 28 ഇവിടെയാണ് അതിനാൽ ഈ പോയിന്റിൽ ഞാൻ പരിമിതപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നു സെൽ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു ഈ പോയിന്റിൽ ഞാൻ വിട്ടുപോയാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആകെ 29 പോയിന്റുകൾ ശേഷിക്കുന്നു എന്നാൽ പ്രക്രിയ നിയന്ത്രണത്തിലാണ് അതിനാൽ മുഴുവൻ ഡാറ്റയും ഇവിടെ നിലനിർത്താൻ വേണ്ടി ഞാൻ അത് പഴയപടിയാക്കുന്നു അതിനാൽ ഇത് U ചാർട്ട് എന്ന എന്റെ ചാർട്ട് ശീർഷകമാണ് ശരി അടുത്തതായി np ചാർട്ട് വരുന്നു U ചാർട്ട് np ചാർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യും np ചാർട്ട് P ചാർട്ടുകൾക്ക് സമാനമാണ് ഒരു നിശ്ചിത സമയങ്ങളിൽ ഒരുപക്ഷേ നിർദ്ദിഷ്ട മണിക്കൂറുകൾ ഷിഫ്റ്റുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ മുതലായവ പ്രക്രിയയിൽ നിന്ന് എടുത്ത സാമ്പിളുകളെ അടിസ്ഥാനമാക്കി ഒരു പ്രക്രിയയുടെ നോൺ കൺഫോർമിങ് യൂണിറ്റുകളുടെ എണ്ണം നിരീക്ഷിക്കാൻ വേണ്ടി np ചാർട്ടുകൾ ഉപയോഗിക്കുന്നു അതിനാൽ സാധാരണയായി ഓരോ സാമ്പിളിനും ഉള്ള നോൺ കൺഫോർമിങ് യൂണിറ്റുകളുടെ ശരാശരി എണ്ണം കണക്കാക്കാൻ സാമ്പിളുകളുടെ പ്രാരംഭ ശ്രേണി ഉപയോഗിക്കുന്നു നോൺ കൺഫോർമിങ് യൂണിറ്റുകളുടെ എണ്ണത്തിന് കൺട്രോൾ ലിമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കണക്കാക്കിയ ശരാശരി ഉപയോഗിക്കുന്നു അതിനാൽ ഈ പ്രാരംഭ ഘട്ടത്തിൽ പ്രക്രിയ നിയന്ത്രണത്തിലായിരിക്കണം പ്രാരംഭ ഘട്ടത്തിൽ തന്നെ പോയിന്റുകൾ ഔട്ട് ഓഫ് കൺട്രോളിൽ ആണെങ്കിൽ അതായത് പ്രാരംഭ എസ്റ്റിമേഷന്റെ സമയത്ത് തന്നെ എങ്കിൽ അസൈനബിൾ കാരണം നിർണ്ണയിക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്റ്റിമേറ്റിൽ നിന്ന് സാമ്പിൾ നീക്കംചെയ്യേണ്ടതുമാണ് P ചാർട്ട് ഫ്രാക്ഷൻ ഡിഫെക്ടിവിനെ കാണിക്കുന്ന ഒന്നാണ് അതേസമയം np ചാർട്ട് ഡിഫക്റ്റീവുകളുടെ എണ്ണത്തെ കാണിക്കുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ np ചാർട്ട് ഇവിടെ ഉണ്ട് p എന്നത് ഫ്രാക്ഷനും n എന്നത് സംഖ്യയുമാണ് ഞാൻ സംഖ്യയെ ഫ്രാക്ഷനുമായി ഗുണിച്ചാൽ അത് ഡിഫക്റ്റീവുകളുടെ എണ്ണത്തെ കാണിക്കും ശരി അതിനാൽ np ചാർട്ടുകൾക്കായി ചാർട്ടിലെ ഓരോ പോയിന്റും Diഎന്ന് സൂചിപ്പിക്കുന്ന ഒരു മൂല്യമാണ് നൽകുന്നത് അത് നോൺ കൺഫോർമിങ് യൂണിറ്റുകളുടെ എണ്ണമാണ് ഒരുപക്ഷേ ith സാംപിളിന്റെ ശരി np ചാർട്ട് സെൻട്രൽ ലൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രൊപോർഷൻ നേരിട്ട് ഇൻപുട്ട് ആയിട്ട് നൽകാം അല്ലെങ്കിൽ സാമ്പിളുകളുടെ ശ്രേണിയിൽ നിന്ന് കണക്കാക്കാം അത് സാമ്പിളുകളുടെ ഫോർമുലയിൽ നിന്ന് കണക്കാക്കിയാൽ അപ്പോൾ സെൻട്രൽ ലൈൻ np ആണ് p i1nDikn ലോവറും അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റ് ഇനിപ്പറയുന്ന പ്രകാരം നൽകാം C L np L C L np znpN U L npznpN ഇവിടെ z 3 അതിനാൽ പ്രോസസ്സ് നിയന്ത്രണത്തിലല്ലാത്തപ്പോൾ എനിക്ക് നൽകിയ കൺട്രോൾ സിഗ്നലുകളിൽ നിന്ന് തെറ്റായ അലാറം അടിക്കുന്നു അതിനാൽ ഇത് np ചാർട്ടിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് സ്ലൈഡുകളിൽ നൽകും അതിനാൽ ഇത് ഒരു പ്രോബ്ലം ആണ് ഇവിടെ ന്യൂമെറിക്കൽ പ്രോബ്ളത്തിൽ നമുക്ക് ഒരു ബൾബ് വ്യവസായശാല ഉണ്ട് അത് ട്രക്കുകളുടെ ഹെഡ് ലൈറ്റുകൾക്ക് ഉള്ള വിളക്കുകൾ നിർമ്മിക്കുന്നു ഡിഫക്റ്റീവുകളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനായി ക്വാളിറ്റി ഇൻസ്പെക്ടർ ഒരു പരിശോധന നടത്തുന്നു അതിൽ റാൻഡം സാമ്പിൾ എടുത്ത് ഉൽപാദിപ്പിക്കപ്പെടുന്ന ഡിഫെക്ടിവ് ഹെഡ്ലാമ്പുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നു എന്നിട്ട് ഡാറ്റ പട്ടികപ്പെടുത്തുന്നു ഇപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ച് അവർ അതിനെ ഒരു കൺട്രോൾ ചാർട്ട് ആക്കുന്നു നമുക്ക് ഇവിടെയുള്ള കൺട്രോൾ ചാർട്ട് np ചാർട്ട് ആണ് അതിനാൽ നമ്പർ ഡിഫക്റ്റീവുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ സാമ്പിൾ എടുക്കുമ്പോൾ ഉള്ള കാലയളവ് നൽകുകയും ചെയ്യുന്നു ഞാൻ ഇവ എന്റെ എക്സൽ ഷീറ്റിൽ കണ്ടെത്തും നമുക്ക് ഡിഫക്റ്റീവുകളുടെ എണ്ണവും കൂടാതെ റീഡിങ് എടുത്തപ്പോൾ ഉള്ള പീരീഡും ഉണ്ട് ശരി np ചാർട്ടിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയുള്ള np ന്റെ മൂല്യം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ശരി ഇത് ഈ മൂല്യങ്ങളുടെ ശരാശരിക്ക് തുല്യമായ ഡിഫെക്ടുകളുടെ ശരാശരിക്ക് തുല്യമാണ് എന്റർ ഞാൻ ഈ ദശാംശത്തിന്റെ രണ്ട് സ്ഥാനങ്ങൾ നൽകുന്നു ഇത് np ബാർ ആണ് നമുക്ക് ഈ സെന്റർ ലൈൻ ആയിട്ട് നമ്മുടെ np ഉം ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും ഉണ്ട് സെൻട്രൽ ലൈൻ ഈ മൂല്യമാണ് np എന്റർ ഞാൻ മൂല്യങ്ങൾ ലോക്ക് ചെയ്യുന്നു ഡോളറും ഡോളറും എന്നിട്ട് ഡ്രാഗ് ചെയ്യുന്നു അത് എന്റെ സെൻട്രൽ ലൈനാണ് L C

L np 3npN ഞാൻ ഇവിടെ N സമം 100 എന്ന് ഇടുന്നു ഇവിടെ N ന്റെ മൂല്യം 100 ആണ് L 4 67 34 67100 സമവാക്യത്തിലും ചോദ്യത്തിലും ഞാൻ N ന്റെ മൂല്യം 100 എന്ന് ഇടുന്നു ശരിയാണ് ശരി അവൻ അത് തിരഞ്ഞെടുക്കുന്നത് കാരണം np ചാർട്ടുകളുടെ കാര്യത്തിൽ N എന്നത് കോൺസ്റ്റന്റ് ആണ് അതിനാൽ ഈ മൂല്യം ഇവിടെ മൈനസ് ആണ് അതിനാൽ നമുക്ക് 0 എന്ന മൂല്യം ഇടാം ഞാൻ നോക്കട്ടെ ശരി ഈ np ഉം P ഉം എല്ലാം ഇവിടെ സമാനമായിരിക്കും അതിനാൽ മൂല്യം മൈനസ് ആണ് അതിനാൽ L L യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ 0 എന്ന് ഇടും അതിനാൽ ഈ മൂല്യം 0 ൽ കുറവാണെങ്കിൽ എനിക്ക് അത് ലൂപ്പിൽ ഇടാനും കഴിയും അതിനുശേഷം അത് 0 എന്ന് എടുക്കുക L 0 എന്ന് എടുക്കുന്നു ശരി കൂടാതെ അപ്പർ കൺട്രോൾ ലിമിറ്റ് അത് നമുക്ക് ഈ പ്ലസ് ഇവിടെ ഇടാൻ കഴിയും ഈ മൂല്യം 0 ആണ് ഈ മൂല്യം എനിക്ക് ഇത് ദശാംശത്തിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും ശരി ഈ മൂല്യം 11 00 ആണ് അത് ഇവിടെയുണ്ട് ശരി ഇപ്പോൾ ഞാൻ ഇത് മറയ്ക്കും L 4 671 4 00 ഇപ്പോൾ ഞാൻ ഈ മൂല്യങ്ങൾ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കും

ഞാൻ സീരീസിന്റെ പേര് നമ്പർ ഡിഫെക്ടിവ് സെൻട്രൽ ലിമിറ്റ് എന്ന് ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല ശരി ഈ നമ്പർ ഡിഫെക്ടിവ് ഇതാണ് np ചാർട്ട് എനിക്ക് ചാർട്ട് ശീർഷകം np ചാർട്ട് എന്ന് ഇടാം ശരി സേവ് ശരി ഒപ്പം ഞാൻ ഇതും സേവ് ചെയ്യുന്നു ഇത് നമ്മുടെ np ചാർട്ട് ആണ് അതിനാൽ മുഴുവൻ പ്രക്രിയയും കൺട്രോൾ ലിമിറ്റ്സിനുള്ളിൽ നിയന്ത്രണത്തിലാണ് ഇത് ആയിരുന്നു കൺട്രോൾ ചാർട്ടുകളെക്കുറിച്ച് ഉള്ളത് അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് കണ്ടുമുട്ടാം നന്ദി